നമ്മളുടെ അവസാന രണ്ടു ഭാഗങ്ങളിൽ നമ്മൾ സി വി പി അല്ലെങ്കിൽ ബി ഇ പി വിശകലനത്തെ കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു ആദ്യം വേരിയബിൾ ചെലവ് നിശ്ചിത ചെലവ് സംഭാവന മാർജിൻ പിന്നെ ബി ഇ പി യുടെ കണക്കുകൂട്ടൽ എന്നിവയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന ആശയങ്ങൾ നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു PV അനുപാതം എന്താണെന്ന് നമുക്ക് നോക്കാം കാരണം ഇത് ഏതൊരു വ്യവസായത്തിനും ഏത് ഉൽപ്പന്നത്തിനും അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക പദ്ധതിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു കണക്കുകൂട്ടലാണ് അതിനാൽ ഇത് ലാഭത്തിന്റെയും സംഭാവനയുടെയും മാർജിനുകൾ തമ്മിലുള്ള ബന്ധത്തിൽ വരുമാനത്തിന്റെ ശതമാനമാണ് അതിനാൽ നമ്മൾ വിൽപ്പന വിലയെ വേരിയബിൾ കോസ്റ്റുമായി ബന്ധപ്പെടുത്തുന്നു നമ്മൾക്ക് സംഭാവന മാർജിൻ ലഭിക്കുന്നു അതിനെ വിൽക്കുന്ന വിലയായി ഹരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് 10 ലക്ഷത്തിന്റെ വിൽപ്പന നടക്കുകയാണെങ്കിൽ അതൊരു ശതമാനമായി അറിയപ്പെടും മൊത്തം മാർജിൻ എത്രയോ അല്ലെങ്കിൽ നിങ്ങൾ സമ്പാദിക്കുന്ന സംഭാവന മാർജിൻ എന്താണോ അതാണ് പി വി അനുപാതം വിൽപ്പന 10 ലക്ഷത്തിൽ നിന്ന് 11 ലക്ഷമായി ഉയരുകയാണെങ്കിൽ ഒരു ലക്ഷം അധിക വിൽപ്പനയിൽ പി വി അനുപാതത്തിൽ നിന്നോ സംഭാവന മാർജിൻ അനുപാതത്തിൽ നിന്നോ നിങ്ങൾക്ക് ലഭിക്കുന്ന അധിക ലാഭം എന്താണ് അപ്പോൾ കണക്കുകൂട്ടൽ നടത്തുന്നത് ഇങ്ങനെയാണ് അടിസ്ഥാന സമവാക്യം ഇതായിരുന്നു ലാഭംവിൽപന ആകെ ചെലവ് എന്നാൽ നമ്മൾ മൊത്തം ചെലവിനെ വേരിയബിളും സ്ഥിരവും ആയി വിഭജിക്കുന്നു വരുമാനവും വേരിയബിൾ ചെലവും തമ്മിലുള്ള താരതമ്യമാണ് സംഭാവനയുടെ മാർജിൻ ലാഭം കണക്കാക്കുന്നതിന് വിൽപനയിൽ നിന്ന് വേരിയബിൾ ചെലവ് കുറയ്ക്കുമ്പോൾ നമ്മൾക്ക് സംഭാവന ലഭിക്കും സംഭാവനയിൽ നിന്ന് നമുക്ക് ലാഭം അറിയാൻ നിശ്ചിത ചെലവ് കുറയ്ക്കാം ഇപ്പോൾ വിൽപന വേരിയബിൾ ചെലവിൽ നിന്നും സംഭാവനയിൽ നിന്നുമുള്ള മുകൾ ഭാഗം യൂണിറ്റ് അടിസ്ഥാനത്തിൽ പരിവർത്തനം ചെയ്യാൻ കഴിയും കാരണം ഈ മൂന്ന് ഘടകങ്ങളും യൂണിറ്റുകളുടെ എണ്ണമോ പ്രവർത്തനത്തിന്റെ തോതോ മാറുന്നതിനനുസരിച്ച് മാറുന്നു ഇപ്പോൾ ലാഭത്തിനായുള്ള സൂത്രവാക്യം ഇതുപോലെയാണ് എസിൽ നിന്ന് വി കുറച്ച് ക്യു കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്ന എഫ്സി ലാഭമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ച് പ്രതീക്ഷിക്കുന്ന അളവ് അല്ലെങ്കിൽ നിശ്ചിത തലത്തിലുള്ള ലാഭം ലക്ഷ്യം വയ്ക്കുന്ന അളവ് എന്നിവ കണക്കാക്കാൻ കഴിയും ഇപ്പോൾ നുമറേറ്ററിൽ എഫ്സിയോട് പ്രതീക്ഷിക്കുന്ന ലാഭം കൂട്ടി അതിനെ എസ് കൊണ്ട് ഹരിച്ച് വിസി യിൽ നിന്നും കുറയ്ക്കുന്നു മനസ്സിലാകുന്നുണ്ടോ തുടർന്ന് നമ്മൾ ബി ഇ പി വിശകലനവും ചർച്ചചെയ്യുന്നു ഞാൻ അതിന്റെ ഉപയോഗങ്ങൾ മുതലായവ സൂക്ഷിക്കുകയാണ് നമ്മൾ ഇനി സൂത്രവാക്യങ്ങളിലേക്ക് പോകും ഇപ്പോൾ യൂണിറ്റ് അടിസ്ഥാനത്തിൽ ബി ഇ പി കണക്കാക്കുന്നതിന് നമ്മളുടെ ലക്ഷ്യം നിശ്ചിത ചെലവ് സമ്പാദിക്കുക എന്നതാണ് അതിനാൽ നിശ്ചിത ചെലവ് ന്യൂമറേറ്ററിൽ സൂക്ഷിക്കുന്നു നമ്മൾ അതിനെ യൂണിറ്റ് സംഭാവനയായി വിഭജിക്കുന്നു നിങ്ങൾക്ക് ഇതിന്റെ ഒരു ചെറിയ രൂപം ഉണ്ടാക്കണമെങ്കിൽ യൂണിറ്റിന്റെ അളവിനെ എഫ് സി എന്നെടുക്കാം ഓരോ യൂണിറ്റിനും നിശ്ചിത വിലയല്ല നിശ്ചിത വില മൊത്തത്തിലുള്ളതാണെന്ന് എപ്പോഴും ഓർമ്മിക്കുക ഒരു യൂണിറ്റ് അടിസ്ഥാനത്തിൽ നിശ്ചിത ചെലവ് ഉണ്ടായിരിക്കുന്നതിൽ അർത്ഥമില്ല നിശ്ചിത എണ്ണം യൂണിറ്റുകളിൽ നിന്ന് വീണ്ടെടുക്കാനുള്ള മൊത്തം നിശ്ചിത ചെലവാണിത് ഇതിന് നമ്മൾ യൂണിറ്റിനെ സംഭാവന കൊണ്ട് ഹരിക്കുന്നു അപ്പോൾ നമുക്കറിയാം നിശ്ചിത ചെലവ് തിരിച്ചു പിടിക്കുന്നതിനായി എത്ര യൂണിറ്റ് വിൽക്കേണ്ടി വരുമെന്ന് അത് മറ്റൊന്നുമല്ല ബ്രേക്ക് ഇവൻ ആണ് യൂണിറ്റ് അടിസ്ഥാനത്തിൽ സംഭാവന വിവരങ്ങൾ ലഭിക്കുക എന്നത് പലപ്പോഴും ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരു യൂണിറ്റ് അടിസ്ഥാനത്തിലുള്ള സംഭാവന കണ്ടെത്തുന്നതിനെക്കാൾ അതിനെ നമ്മൾ പിവി അനുപാതംകൊണ്ട് ഹരിക്കുക അപ്പോൾ പി വി അനുപാതത്തിന്റെ സൂത്രവാക്യം എന്താണ് അത് വിൽപ്പനയുടെ മേലുള്ള സംഭാവനയാണ് ശതമാനം എന്ന നിലയിൽ നമ്മുടെ മാർജിൻ എന്താണോ അതാണ് പി വി അനുപാതം നമ്മൾ ബി ഇ പി യുടെ വിൽപ്പന മൂല്യം കണക്കാക്കുന്നതിന് നിശ്ചിത ചെലവിനെ പി വി അനുപാതം കൊണ്ട് ഹരിക്കുന്നു ഇതാണ് സി വി പി കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് ഗ്രാഫ് ഇതിനെ ബ്രേക്ക്ഈവൻ ചാർട്ട് എന്നും വിളിക്കുന്നു ഇത് ശ്രദ്ധാപൂർവ്വം നോക്കുക ഇത് വളരെ പ്രധാനമാണ് നിങ്ങൾ കുറച്ച് നിമിഷങ്ങൾ നോക്കിയാൽ എല്ലാ ആശയങ്ങളും വ്യക്തമാകുമെന്ന് ഞാൻ കരുതുന്നു മനസ്സിലായോ അപ്പോൾ നിങ്ങൾക്ക് നിശ്ചിത ചെലവ് ലഭിച്ചു ഇത് 0 ൽ നിന്ന് ആരംഭിക്കാത്ത ഒരു തിരശ്ചീന രേഖയാണ് ഈ ഉദാഹരണത്തിൽ ഒരു ലക്ഷത്തിൽ നിന്ന് ആരംഭിക്കുന്നു അപ്പോൾ അവിടെ നിന്ന് തന്നെ ഒരു രേഖ ഉയർന്നുവരുന്നു അത് മൊത്തത്തിലുള്ള ചിലവ് രേഖയാണ് കാരണം മൊത്തത്തിലുള്ള ചെലവ് ഒരിക്കലും 0 അല്ല 0 യൂണിറ്റിൽ 0 ആണ് അത് നിശ്ചിത വിലയ്ക്ക് തുല്യമാണ് തുടർന്ന് അത് വേരിയബിൾ ചെലവുകൾ വർദ്ധിച്ചുവരുന്ന അനുപാതത്തിൽ പതുക്കെ ഉയരുന്നു അപ്പോൾ ഈ ചുവന്ന രേഖയെ മൊത്ത വിൽപ്പന എന്നറിയപ്പെടുന്നു ചിലപ്പോൾ റ്റി ആർ അല്ലെങ്കിൽ മറ്റ് മൊത്തം വരുമാന രേഖ എന്ന് വിളിക്കുന്നു അത് 0 ൽ ആരംഭിക്കുന്നു അത് ഒരു പ്രത്യേക ബിന്ദുവിൽ റ്റി സി അല്ലെങ്കിൽ മറ്റ് മൊത്തം ചെലവ് രേഖയെ മറികടക്കുന്നു ഈ ബിന്ദു ബ്രേക്ക്ഈവൻ പോയിന്റല്ലാതെ മറ്റൊന്നുമല്ല കാരണം ഈ സമയത്ത് നിങ്ങളുടെ എല്ലാ ചെലവുകളും വഹിക്കാനും നിങ്ങളുടെ ചെലവിനേക്കാൾ കൂടുതൽ വരുമാനം നേടാനും നിങ്ങൾക്ക് കഴിയും എല്ലാ കമ്പനികളും എപ്പോഴും ഈ വിൽപ്പന നിലവാരത്തിന് മുകളിൽ ആഗ്രഹിക്കുന്നു ഈ തലത്തിന് താഴെയാണ് ലോസ് ഏരിയ എന്ന് അറിയപ്പെടുന്നത് കാരണം ഇപ്പോൾ നിങ്ങളുടെ ചെലവ് വിൽപ്പനയേക്കാൾ കൂടുതലാണ് ഈ തലത്തിന് മുകളിൽ നിങ്ങളുടെ വിൽപ്പന ചെലവുകളേക്കാൾ കൂടുതലാണ് അതിനാൽ നിങ്ങൾ ലാഭമേഖലയിലാണ് ഒരിക്കൽ നിങ്ങൾ ബ്രേക്ക്ഈവൻ കടന്നാൽ നിങ്ങൾ സമ്പാദിക്കുന്ന ഓരോ അധിക സംഭാവനയും നിങ്ങളുടെ ലാഭമാണ് കാരണം നിശ്ചിത ചെലവുകൾ ഇപ്പോൾ പരിരക്ഷിക്കപ്പെടുന്നു അതിനാൽ യൂണിറ്റുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് ലാഭത്തിന്റെ വിസ്തീർണ്ണം വർദ്ധിക്കുകയും ചെയ്യാം എന്നാൽ നഷ്ടത്തിന്റെ വിസ്തീർണ്ണം യഥാർത്ഥത്തിൽ പരിമിതമാണ് പരമാവധി നഷ്ടം 0 ബിന്ദുവിലെ നിശ്ചിത വിലയ്ക്ക് തുല്യമാണ് കാരണം സ്ഥിരമായ ചെലവ് വിൽപന പരിഗണിക്കാതെ നമ്മൾ വഹിക്കുന്ന ചെലവുകളാണ് അതിനാൽ 0 ൽ നിങ്ങളുടെ എല്ലാ സ്ഥിര ചെലവുകളും നിങ്ങൾ തന്നെ വരുത്തി വെച്ചതാണ് വരുമാനം 0 ആണ് അതിനാൽ നിശ്ചിത ചെലവ് പരമാവധി നഷ്ടമാണ് അവിടെ നിന്ന് നഷ്ടം കുറയുന്നു അത് ബ്രേക്ക്ഈവൻ പോയിന്റിൽ 0 ആയി വരുന്നു ഇതിന് മുകളിൽ നിങ്ങൾക്ക് ലാഭം ലഭിച്ചു അതുകൊണ്ടാണ് മിക്ക കമ്പനികൾക്കും അല്ലെങ്കിൽ വ്യവസായശാലകൾക്കും ബി ഇ പി വളരെ രസകരവും പ്രധാനപ്പെട്ടതുമായ കണക്കുകൂട്ടൽ ആവുന്നത് കുറഞ്ഞത് ബ്രേക്ക് ഇവൻ എങ്കിലും ലഭിക്കണം വിശദീകരണം ചർച്ച ചെയ്തു ഇപ്പോൾ നമ്മൾ അതിൽനിന്ന് ഒരു ആശയം എടുക്കുകയോ അല്ലെങ്കിൽ അതിനെ കുറിച്ച് ചർച്ച ചെയ്യുകയോ ആണ് ഈ ചിത്രം നിങ്ങൾ ഓർക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആ വിശദീകരണത്തിൽ ഏക ഒരിക്കൽ കൂടി നോക്കുകയാണെങ്കിൽ 12000 ബൈക്കുകൾ 5 ലക്ഷം രൂപ ലാഭം നേടിയെന്നാണ് അവരുടെ കണക്കാക്കപ്പെട്ട വിൽപ്പന ഇപ്പോൾ ഇവയെ അടിസ്ഥാനമാക്കി എം ഓ എസ് അല്ലെങ്കിൽ മാർജിൻ ഓഫ് സേഫ്റ്റി എന്നൊരു ആശയം ഉണ്ട് 12000 യൂണിറ്റുകളുള്ള കമ്പനി ബ്രേക്ക്വെൻ പോയിന്റിന് മുകളിലാണെന്ന് നമ്മൾക്കറിയാം അത് സുരക്ഷയുടെ മാർജിൻ അല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ യൂണിറ്റുകളുടെ അടിസ്ഥാനത്തിൽ 11400 ആയി ഞങ്ങൾ ബ്രേക്ക്ഈവൻ പോയിന്റ് കണക്കാക്കി കണക്കാക്കിയ വിൽപ്പന 12000 ആണ് അതായത് 11400 ൽ നിന്ന് 12 കുറച്ചാൽ 600 ബൈക്കുകൾ ബ്രേക്ക് ഇവനെക്കാൾ കൂടുതലാണ് ഇതിനെ യൂണിറ്റുകളിൽ മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് വിളിക്കുന്നു ഇത് വിൽപ്പന നിബന്ധനകളിൽ കണക്കാക്കാം അല്ലെങ്കിൽ ഒരു ശതമാനമായി കണക്കാക്കാം അതിനാൽ നിങ്ങൾക്ക് 12000 യൂണിറ്റുകൾ വിൽക്കാൻ കഴിയും അതായത് നിങ്ങൾക്ക് 600 മാർജിൻ ഉണ്ടെങ്കിൽ 12000 ന് 600 ഇങ്ങനെയാണ് എം ഓ എസ് ഒരു ശതമാനമായി കണക്കാക്കുന്നത് ഞാൻ നിങ്ങൾക്ക് സൂത്രവാക്യം കാണിച്ചുതരാം മനസ്സിലാവുന്നുണ്ടോ സുരക്ഷയുടെ മാർജിൻ യഥാർത്ഥ വിൽപ്പന ബ്രേക്ക്ഈവൻ വിൽപ്പന ബ്രേക്ക്ഈവൻ വിൽപ്പന ഒന്നുകിൽ നിങ്ങൾക്ക് യൂണിറ്റുകളിൽ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന രൂപയിൽ ചെയ്യാം ഇത് കാണിക്കുന്നതിനുള്ള മറ്റൊരു മാർഗം എം ഓ എസ് നെ ഒരു ശതമാനമായി എടുക്കുക സുരക്ഷയുടെ മാർജിൻ വിൽപ്പന ബി ഇ പി വിൽപ്പന ബി ഇ പി കൊണ്ട് വിഭജിക്കരുതെന്ന് ഓർമ്മിക്കുക ചില വിദ്യാർത്ഥികൾ കാൽക്കുലേറ്ററിൽ എം ഓ എസ് നെ ബി ഇ പി കൊണ്ട് ഹരിച്ച് തെറ്റിദ്ധരിക്കപ്പെടുന്നു അത് നിങ്ങൾക്ക് കുറച്ച് ഉത്തരം നൽകും പക്ഷേ അത് ഒരു ശതമാനമായി കണക്കാക്കുമ്പോൾ സുരക്ഷിതത്വത്തിന്റെ മാർജിൻ അല്ല മനസ്സിലായോ ഇപ്പോൾ ഇത് നിലവിലെ വിൽപ്പന തലത്തിൽ വ്യവസായത്തിന് ലഭ്യമായ സുരക്ഷയെ പ്രതിനിധീകരിക്കുന്നു കാരണം നഷ്ടം ഒഴിവാക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു അതിനാൽ നഷ്ടം ഒഴിവാക്കാൻ നിങ്ങൾ ഒരു നിശ്ചിത തലത്തിലുള്ള വിൽപ്പനയ്ക്ക് മുകളിലാണെങ്കിൽ നിങ്ങൾ എത്രത്തോളം മുകളിലാണ് എന്നത് സുരക്ഷയുടെ മാർജിൻ ആണ് ഇപ്പോൾ നമുക്ക് ലളിതമായ ഒരു ഉദാഹരണം ചെയ്യാൻ ശ്രമിക്കാം അതിനാൽ പ്രഭാ ദേവി ആഭരണങ്ങൾക്ക് 5000 യൂണിറ്റ് വിൽപ്പനയുണ്ട് വിൽപ്പന വില 50 ആണ് വേരിയബിൾ വില 30 ആണ് നിശ്ചിത വില 35000 ആണ് ഇപ്പോൾ ബി ഇ പി അളവ് തുകയും അതുപോലെ എം ഓ എസ് ഉം ഒരു ശതമാനമായി കണക്കാക്കുക ഈ കണക്കുകൂട്ടൽ ചെയ്യുക നിങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും ഒന്നാമതായി നിങ്ങൾ 50 ഉം 30 ഉം താരതമ്യം ചെയ്യണം കാരണം അത് നിങ്ങൾ സമ്പാദിക്കുന്ന ഒരു പ്രാഥമിക ലാഭമാണ് 50 ൽ നിന്നും 30 കുറയ്ക്കുമ്പോൾ കിട്ടുന്നത് എന്താണ് ഇതാണ് ഓരോ യൂണിറ്റിനും ഉള്ള സംഭാവന എന്ന് നിങ്ങൾ ഓർക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിനാൽ തുടക്കത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു കണക്കുകൂട്ടൽ യൂണിറ്റിന്റെ സംഭാവന കണക്കാക്കുക എന്നതാണ് അതിനാൽ നിങ്ങൾ വിൽക്കുന്ന ഒരു യൂണിറ്റ് നിങ്ങൾക്ക് 20 രൂപ നൽകുന്നു നിങ്ങൾ കുറഞ്ഞത് എത്ര സമ്പാദിക്കണം കുറഞ്ഞത് നിങ്ങളുടെ 35000 പൂർത്തിയാക്കാൻ ചെയ്യാൻ വേണ്ടത്ര സമ്പാദിക്കണം കാരണം അത് നിങ്ങളുടെ നിശ്ചിത ചെലവാണ് അതിനാൽ 20 ന് 35000 എന്നത് ഒരു ബിഇപി അളവാണ് നിങ്ങൾക്ക് അളവ് 50 കൊണ്ട് ഗുണിച്ച് തുകയാക്കി മാറ്റാം അല്ലെങ്കിൽ ഈ 35000 പി വി അനുപാതം കൊണ്ട് ഹരിക്കുക അപ്പോൾ PV അനുപാതം എത്രയാണ് 50 ൽ നിന്ന് 30 കുറയ്ക്കുമ്പോൾ കിട്ടുന്ന 20 ഒരു സംഭാവനയാണ് അതിനെ 50 കൊണ്ട് ഹരിക്കുക അതായത് 20 നെ 50 കൊണ്ട് ഹരിക്കുക 40 ശതമാനം എന്നത് PV അനുപാതമാണ് ഇപ്പോൾ നിങ്ങൾ നിശ്ചിത ചെലവ് 40 ശതമാനം കൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്ക് ബി ഇ പി തുക ലഭിക്കും ഇപ്പോൾ അളവും തുകയും കണക്കാക്കിയ ശേഷം എം ഓ എസ് ന്റെ കണക്കുകൂട്ടലിലേക്ക് പോകുന്നു ഞാൻ കണക്കുകൾ കാണിച്ചുതരാം 35000 നെ 20 കൊണ്ട് ഹരിച്ചത് നിങ്ങൾക്ക് വ്യക്തമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതായത് 1750 യൂണിറ്റുകൾ ഒരു ബ്രേക്ക് ഈവൻ പോയിന്റാണ് 35000 വീണ്ടെടുക്കാൻ നിങ്ങൾ 1750 യൂണിറ്റുകൾ വിൽക്കേണ്ടതുണ്ട് ഇപ്പോൾ വിൽപ്പന മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ആദ്യം കണക്കാക്കേണ്ടത് PV അനുപാതമായ 20 ഹരണം 50 ആണ് അതായത് 40 ശതമാനം 35000 നെ 40 കൊണ്ട് ഹരിക്കുമ്പോൾ നിങ്ങൾക്ക് 87500 രൂപ നൽകുന്നു അത് രൂപയുടെ അടിസ്ഥാനത്തിൽ ബി ഇ പി ആണ് നമ്മൾ ആദ്യത്തെ രണ്ട് കണക്കുകൂട്ടലുകൾ നടത്തി ഇപ്പോൾ അടുത്തത് എം ഓ എസ് ആണ് അവർ 5000 വിൽപ്പന നൽകി അതിനാൽ എം ഓ എസ് ശതമാനം കണക്കാക്കുക ഇപ്പോൾ 5000 അവരുടെ വിൽപ്പന നിലയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് 1750 മാത്രമാണ് അതിനാൽ 5000 ത്തിൽ നിന്ന് 1750 കുറയ്ക്കുമ്പോൾ തമ്മിലുള്ള വ്യത്യാസം അവരുടെ എം ഓ എസ് ആണ് തുടർന്ന് അത് ശതമാനത്തിലേക്ക് പരിവർത്തനം ചെയ്യുക അതിനാൽ സുരക്ഷയുടെ മാർജിനായ 5000 ത്തിൽ നിന്ന് 1750 കുറച്ച് അതിനെ നിലവിലെ വിൽപ്പനയായ 5000 കൊണ്ട് ഹരിച്ചാൽ 65 ശതമാനം ലഭിക്കും അതിന്റെ അർത്ഥം അവരുടെ 5000 വിൽപന 10 ശതമാനം 20 ശതമാനം 30 ശതമാനം 40 ശതമാനം കുറയാൻ തുടങ്ങിയെന്ന് കരുതുക അവർ ഇപ്പോഴും നഷ്ടത്തിലല്ല വിൽപ്പന കുറയുന്നതിനാൽ അവർ വിഷമിക്കേണ്ടിവരും പക്ഷേ ഇത് 65 ശതമാനം വരെ ഉയരും അതിനുമുമ്പ് അവർ നഷ്ടത്തിലാകില്ല അതിനാലാണ് അവർക്ക് 65 ശതമാനം സുരക്ഷാ മാർജിൻ ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ അതിനാൽ ഇവ ലളിതമായ ചിത്രീകരണങ്ങളാണ് ഇനി നിങ്ങളുമായി പങ്കുവെച്ച വിഷയങ്ങളിലേക്ക് പോകാം പകർപ്പ് കിട്ടിയെന്ന് ചിത്രീകരണം കരുതുന്നു ഇല്ലെങ്കിൽ ദയവായി പകർപ്പ് എടുക്കുക നിങ്ങൾക്ക് ഈ ഇവിടെ നിർത്താം പകർപ്പ് എടുത്ത് നമുക്ക് ഒരുമിച്ച് വിഷയങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കാം ശരിയല്ലേ അപ്പോൾ അഞ്ച് വിഷയങ്ങൾ നിങ്ങളുമായി പങ്കിടാം എന്നിട്ട് അവ ഓരോന്നോരോന്നായി നമുക്ക് നോക്കാം നമുക്ക് ഗണേഷ്ൽ നിന്ന് തുടങ്ങാം അതിനാൽ ഗണേഷ് ലിമിറ്റഡ് എ ബി സി എന്നീ ബ്രാൻഡ് നാമങ്ങളിൽ മൂന്ന് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നു ഇവയാണ് അവയുടെ വില ഘടനയുടെ വിശദാംശങ്ങൾ അതിനാൽ നിങ്ങൾക്കറിയാം നേരിട്ടുള്ള സാമഗ്രികളും തൊഴിൽ അധ്വാനവും വേരിയബിൾ ഓവർ ഹെഡ്സും 889 എന്നിങ്ങനെയാണ് ഉൽപ്പന്നത്തിന് വില്പന വില 35 ആണ് അതേ രീതിയിൽ ബി സി B C എന്നിവയ്ക്ക് 480000 ആണ് പ്രതിമാസ നിശ്ചിത ചെലവ് 480000 ആണ് ഇപ്പോൾ അവർ 2 മാസത്തെ വിൽപ്പന അളവ് നൽകി ജൂലൈ ഓഗസ്റ്റ് മാസങ്ങൾ അതിനാൽ ജൂലൈയിൽ നൽകിയ രണ്ട് വിൽപ്പന മിശ്രണങ്ങൾ എ ബി സി എന്നിവയ്ക്ക് 20 20 20000 എന്നിങ്ങനെയാണ് ഓഗസ്റ്റിൽ ഇത് വ്യത്യസ്തമാണ് ഇപ്പോൾ പ്രതിമാസ ലാഭം കണ്ടെത്തുന്നതിന് ആദ്യം നമ്മൾ രണ്ട് കാര്യങ്ങൾ ചെയ്യണം ജൂലൈ ഓഗസ്റ്റ് എന്നീ രണ്ടു മാസങ്ങളിലും കമ്പനിയുടെ ലാഭം കണക്കാക്കുക കുറഞ്ഞ അളവുള്ള മാസത്തിൽ ഉയർന്ന ലാഭം നേടിയെന്ന് നിങ്ങളുടെ കണക്കുകൂട്ടലുകൾ പുറത്തുകൊണ്ടുവരുന്നുവെങ്കിൽ ദയവായി ന്യായീകരിക്കുക അതിനാൽ എന്തുകൊണ്ടാണ് ഇത് സാധ്യമായതെന്ന് ചിന്തിക്കുക ഇത് സാധ്യമാണോ കുറഞ്ഞ വിൽപ്പനയും കൂടുതൽ ലാഭവും ബി ഭാഗത്തിൽ രണ്ടാമത്തേത് ഓരോ മാസത്തെയും വിൽപ്പന മിശ്രണം രണ്ട് വിൽപ്പന മിശ്രണങ്ങളായി കണക്കാക്കിയാൽ മിശ്രണം X 1 മിശ്രണം X 2 എന്നിങ്ങനെ പറയുന്നു ഓരോ മിശ്രണത്തിനും ബ്രേക്ക്ഈവൻ പോയിന്റ് കണക്കാക്കുക രണ്ട് മിശ്രണങ്ങളിൽ ഏതാണ് നിങ്ങൾ ശുപാർശ ചെയ്യുന്നത് അതിനാൽ ഈ രണ്ട് മാസത്തെ രണ്ട് വിൽപ്പന പദ്ധതികളായി കണക്കാക്കുന്നു തുടർന്ന് ഏത് പദ്ധതിയാണ് നിങ്ങൾ ശുപാർശ ചെയ്യുന്നതെന്ന് കണക്കാക്കണം ശരി നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ നിങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും ചിന്തിക്കുക ഓരോ യൂണിറ്റിനും വിഹിതം കണക്കാക്കുക എന്നതാണ് ആദ്യപടി എന്ന് നിങ്ങളിൽ മിക്കവർക്കും ഇപ്പോൾ അറിയാമെന്ന് ഞാൻ കരുതുന്നു വിൽപ്പന വില നമ്മൾക്കറിയാം വേരിയബിൾ ചെലവുകൾ നമ്മൾക്കറിയാം അതിനാൽ സംഭാവന കണക്കാക്കുക സംഭാവനയെ അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് മൂന്ന് ഉൽപ്പന്നങ്ങൾക്കും പി വി അനുപാതം കണക്കാക്കാം ജൂലൈ മാസത്തിൽ വിറ്റഴിച്ച യൂണിറ്റുകളുടെ എണ്ണം ഇപ്പോൾ നിങ്ങൾക്കറിയാം അതിനാൽ ഓരോ യൂണിറ്റുകളുടെയും വിഹിതം നിങ്ങൾക്ക് ജൂലൈയിലും ഓഗസ്റ്റിലും വെവ്വേറെ മൊത്ത സംഭാവന നൽകും അതിൽ നിന്ന് നിശ്ചിത ചെലവുകൾ കുറയ്ക്കുക പ്രതിമാസ ലാഭം കണക്കാക്കാൻ സംഭാവനയിൽ നിന്ന് നിശ്ചിത ചെലവ് കുറയ്ക്കുന്നതാണ് നമ്മളോട് ചെയ്യാനാവശ്യപ്പെട്ടിരിക്കുന്ന യഥാർത്ഥ രീതി തുടർന്ന് ഏത് മാസമാണ് കൂടുതൽ ലാഭമുള്ളതെന്ന് നമ്മൾ ചർച്ച ചെയ്യും ജൂലൈ മാസത്തിൽ അവരുടെ മൊത്തം വിൽപ്പന 20 അധികം 20 അധികം20 അതായത് 60000 ആണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഓഗസ്റ്റ് മാസത്തിൽ അവരുടെ വിൽപ്പനയിൽ നേരിയ കുറവുണ്ടായി അതിനാൽ ഏത് മാസമാണ് നിങ്ങൾക്ക് കൂടുതൽ ലാഭം നൽകുന്നത് എന്ന് നോക്കാം അതിനാൽ ഞാൻ ഇത് എക്സലിൽ കാണിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ നിങ്ങൾ ഇത് നിങ്ങളുടെ സ്വന്തം നോട്ട് ബുക്കിൽ ചെയ്യാൻ ശ്രമിക്കുക ഇതാണ് 3 മാസങ്ങൾ ആദ്യം സംഭാവനയുടെ ഒരു പ്രസ്താവനയും പി വി അനുപാതവും ഉണ്ടാക്കുക അതിനാൽ എ ബി സി A B C എന്നീ നാല് നിരകളുടെ വിശദാംശങ്ങൾ ഉണ്ടാക്കുക നമ്മൾ 36 55 58 എന്നിങ്ങനെയുള്ള വിൽപ്പന വിലയിൽ നിന്ന് ആരംഭിക്കുന്നു ആ മൂന്ന് ഉൽപ്പന്നങ്ങളിൽ ഓരോന്നിൽ നിന്നും ഓരോ യൂണിറ്റിന്റെ വേരിയബിൾ വില കുറയ്ക്കുക നിങ്ങൾ എന്നോടൊപ്പം ഇത് ചെയ്യുന്നുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിനാൽ ഓരോ യൂണിറ്റിനും വേരിയബിൾ കോസ്റ്റ് നൽകുന്ന ഡിഎം ഡിഎൽ വേരിയബിൾ ഓവർഹെഡുകൾ എന്നിങ്ങനെയുള്ള വേരിയബിൾ ചെലവിന്റെ ഘടകങ്ങൾ ദയവായി എഴുതുക അതിനാൽ നിങ്ങൾക്ക് 8 8 9 എന്നിവ ലഭിച്ചു ഈ കണക്കുകൾ ഇവിടെ എടുക്കുക ശരി നിങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ടോ അതിനാൽ 8 അധികം 8 അധികം 9 എന്നാൽ യൂണിറ്റിന് വേരിയബിൾ ചെലവ് 25 ആണ് വിൽപ്പന വില 36 ആണ് വേരിയബിൾ ചെലവ് 25 ആണ് അതിനാൽ ഒരു യൂണിറ്റിന് സംഭാവന 11 ആണ് അതിനാൽ ഒരു കമ്പനിയുടെ ഒരു യൂണിറ്റിൽ നിന്ന് സംഭാവന മാർജിൻ 11 ഉണ്ടാക്കാൻ കഴിയും ശതമാനമായി കണക്കാക്കുമ്പോൾ ഇത് 0 306 ആണ് അതിനാൽ 11 ന് 36 എന്നത് PV അനുപാതം എന്നറിയപ്പെടുന്ന അനുപാതം നിങ്ങൾക്ക് നൽകും ഇപ്പോൾ അതേ രീതിയിൽ 14 8 20 എന്നിങ്ങനെയുള്ള ബി ഉത്പന്നതിന്റെ വിവരങ്ങൾ എടുക്കുക വേരിയബിൾ ചെലവുകൾ മൊത്തം വേരിയബിൾ ചെലവ് സംഭാവനയും പി വി അനുപാതവും കണക്കാക്കുക അപ്പോൾ നിങ്ങൾക്ക് എത്ര ലഭിച്ചു നിങ്ങൾക്ക് 12 സംഭാവന ലഭിക്കുന്നുണ്ടോ ആകെ സൊല്യൂഷൻ വി സി 42 54 നിന്ന് 42 കുറച്ചു നോക്കൂ അതായത് പന്ത്രണ്ട് രൂപയാണ് സംഭാവന PV അനുപാതം 0 22 ആണ് ഇനി സി ഉൽപ്പന്നത്തിനായി ഇത് ചെയ്യുക ഞാൻ പരിഹരിച്ച് കാണിക്കേണ്ടതില്ലെന്ന് ഞാൻ കരുതുന്നു സി ക്ക് വേണ്ടി നിങ്ങൾക്ക് ഇത് ചെയ്യാം നിങ്ങൾക്ക് 4 രൂപ സംഭാവന ലഭിക്കുന്നുണ്ടോ കൂടാതെ 0 06 ആണ് പി വി അനുപാതം മാർജിനൽ കോസ്റ്റിംഗിന്റെ സിവിപി വിശകലനം ഉൾപ്പെടുന്ന ഏത് സാഹചര്യത്തിലും ആരംഭ ബിന്ദു യൂണിറ്റ് സംഭാവനയുടെ കണക്കുകൂട്ടൽ ആയിരിക്കും നിങ്ങൾക്ക് യൂണിറ്റിനെ കുറിച്ച് അറിയാമല്ലോ അത്തരത്തിലുള്ള യൂണിറ്റുകൾക്ക് അല്ലെങ്കിൽ ആ പ്രവർത്തന നിരയ്ക്കോ ഉള്ള പി വി അനുപാതം നിങ്ങൾക്ക് കണക്കാക്കാൻ അറിയില്ലെങ്കിൽ എന്തു മാർജിൻ നേടാനാകും ഈ കണക്കുകൂട്ടലാണ് ആരംഭ ബിന്ദു ഇതാണ് ആദ്യത്തെ നിർബന്ധിത കണക്കുകൂട്ടൽ ഇനി ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്രതിമാസ ലാഭത്തിന്റെ കണക്കുകൂട്ടൽ നടത്താം അതിനാൽ ദയവായി ഇപ്പോൾ ജൂലൈയിലെ ഒരു ലാഭക്ഷമത പ്രസ്താവന നടത്തുക വിൽപ്പന വില നമ്മൾക്കറിയാം യൂണിറ്റുകളുടെ എണ്ണം നമ്മൾക്കറിയാം അതിനാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ വിൽപ്പന കണക്കാക്കാം സംഭാവനാ ചാർട്ടിൽ നിന്ന് ഓരോ യൂണിറ്റിനും സംഭാവന എത്രയെന്ന് നിങ്ങൾക്കറിയാം ആ വിവരങ്ങൾ പ്രയോഗിക്കുകയും ജൂലായ് മാസത്തെ മൊത്തം ലാഭമായി മാറുന്ന മൂന്ന് ഉൽപ്പന്നങ്ങളിൽ നിന്നും ലാഭം കണക്കാക്കുകയും ചെയ്യുക നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുമോ അതിനാൽ 11 എന്നത് ഒരു യൂണിറ്റിന് 20000 ലേക്ക് ഒരു ലാഭം അല്ലെങ്കിൽ സംഭാവനയാണ് അതായത് 2 ലക്ഷം ക്ഷമിക്കണം 20 അതെ 220000 എന്നത് ഒരു സംഭാവനയാണ് ഇപ്പോൾ നിശ്ചിത ചെലവ് കുറയ്ക്കുന്നതിൽ അർത്ഥമില്ല കാരണം നിങ്ങൾക്ക് എ യുടെ നിശ്ചിത ചെലവ് പ്രത്യേകം അറിയില്ല എന്നാൽ നിങ്ങൾ അത് മുഴുവൻ കമ്പനിക്കും വേണ്ടി പൂർത്തിയാക്കിയാൽ ഇവിടെ 220 ബി ക്ക് 440 സി യ്ക്ക് 80000 അതായത് ഒരു കമ്പനിക്ക് മൊത്തത്തിൽ 2960000 വിൽപനയിൽ നിന്ന് 540000 സംഭാവന നേടാൻ അവർക്ക് കഴിയും ഈ കിഴിവിൽ നിന്ന് നിശ്ചിത വില 480000 ഇപ്പോൾ 540 നിന്ന് 480 കുറയ്ക്കുക നിങ്ങൾക്ക് 60000 ലാഭം ലഭിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ശരി ജൂലൈയിലെ ലാഭം നിങ്ങൾ കണക്കാക്കിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ അതേ പ്രക്രിയ തുടരുക ഓഗസ്റ്റിലെ ലാഭക്ഷമത കണക്കാക്കുക വിൽപ്പന വിലയും സംഭാവനയും നിങ്ങൾക്ക് വീണ്ടും അറിയാം യഥാർത്ഥത്തിൽ നിങ്ങൾ മൊത്തം വിൽപ്പന കണക്കാക്കേണ്ടതില്ല അവ വലിയ പങ്ക് വഹിക്കുന്നില്ല നമ്മൾ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നതിനെ മൊത്തം സംഭാവന എന്ന് വിളിക്കുന്നു അത് നിശ്ചിത ചെലവിൽ നിന്ന് കുറയ്ക്കുക സ്ഥിരമായ ചെലവ് മാറാൻ പോകുന്നില്ല അതിനാൽ യഥാർത്ഥത്തിൽ ലാഭ മാറ്റം സംഭവിക്കാൻ പോകുന്നത് ഓഗസ്റ്റ് മാസത്തിൽ നേടിയ സംഭാവനക്കാണ് അതിനാൽ യൂണിറ്റിന് 11 എന്ന തുക 35000 യൂണിറ്റായി കണക്കാക്കുക അതിനാൽ എ യ്ക്ക് 385000 അത് ലഭിക്കുന്നു ബി ക്ക് 192 സി ക്ക് 20000 അതിനാൽ ആകെ 597 ജൂലൈ മാസത്തിൽ ഇത് 540 ആയിരുന്നു ഇപ്പോൾ സംഭാവന 597 ആയി ഉയർന്നു നിശ്ചിത വില 480 കുറയ്ക്കുക ലാഭം ഇപ്പോൾ 117000 ആണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ ചോദ്യത്തിന്റെ ആദ്യ ഭാഗം പ്രതിമാസ ലാഭക്ഷമത പ്രസ്താവന നടത്തി ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ ലാഭം കണക്കാക്കുക എന്നതായിരുന്നു എല്ലാവർക്കും അത് ചെയ്യാൻ കഴിയുമോ ഇപ്പോൾ ലാഭം 60000 ൽ നിന്ന് 119 ആയി ഇരട്ടിയായി എന്നാൽ യൂണിറ്റുകളുടെ എണ്ണം 60000 ൽ നിന്ന് 56000 ആയി കുറഞ്ഞു എന്നാൽ ലാഭം ഇരട്ടിയായി എങ്ങനെയാണ് ഈ മാന്ത്രികവിദ്യ സാധ്യമായത് എ ബി സി ABC എന്നിവയ്ക്കിടയിലുള്ള വിൽപന മിശ്രിതം ഒന്ന് മുതൽ ഒന്ന് വരെ എന്നതായിരുന്നു നേരത്തെയുള്ള വിൽപ്പന മിശ്രണം അവർ മാറ്റിയിരിക്കുന്നതിനാലാണ് ഈ മാന്ത്രികവിദ്യ സാധ്യമായത് ഇപ്പോൾ അവർ എ യിൽ കൂടുതൽ ഊന്നൽ നൽകി അത് 35000 16000 മുതൽ 5000 വരെയാണ് ലാഭം ഇരട്ടിയാക്കാൻ അവ ലഭ്യമായിരുന്നു ചോദ്യം മികച്ച പ്രതിമാസ ലാഭമായിരുന്നു നിങ്ങളുടെ കണക്കുകൂട്ടലുകൾ ഉയർന്ന ലാഭം കൊണ്ടുവരുന്നുവെങ്കിൽ കണ്ടെത്തലുകളെ ന്യായീകരിക്കുക നിങ്ങൾക്ക് അത് എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും ഓഗസ്റ്റിലെ കൂടുതൽ ലാഭത്തിന് എന്തെങ്കിലും ന്യായവാദം നൽകാൻ നിങ്ങൾക്ക് കഴിയുമോ അതെ കാരണം ഓഗസ്റ്റ് മാസത്തിലേത് മികച്ച വിൽപ്പന മിശ്രണമാണ് എന്തുകൊണ്ടാണ് ഈ വിൽപ്പന മിശ്രണം ജൂലൈയിലെ വിൽപ്പന മിശ്രണത്തേക്കാൾ മികച്ചത് കാരണം നിങ്ങൾ മൂന്ന് ഉൽപ്പന്നങ്ങളെ താരതമ്യം ചെയ്താൽ ബി അല്ലെങ്കിൽ സി എന്നതിനേക്കാൾ വളരെ മികച്ചതാണ് എ കൂടാതെ അവർ എ യുടെ വിൽപ്പന വർദ്ധിപ്പിച്ചു സി യുടെ വിൽപ്പന വെട്ടിക്കുറച്ചു അങ്ങനെയാണ് അവർ അവരുടെ സംഭാവന വർദ്ധിപ്പിച്ചത് നിശ്ചിത ചെലവ് എന്തായാലും 480 ആയി മാറില്ല അതിനാൽ ഏത് വർദ്ധനയുള്ള സംഭാവനയും നേരിട്ട് ലാഭത്തിലേക്ക് പോകുന്നു അതിനാൽ അവർക്ക് അവരുടെ ലാഭം ഇരട്ടിയാക്കാൻ കഴിയും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ അടുത്ത തവണ നമ്മൾ ചോദ്യ ത്തിന്റെ രണ്ടാം ഭാഗം തുടരും നന്ദി നമസ്കാരം